ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയ വിവിധ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളെക്കുറിച്ച് ഇതുവരെ നമുക്കറിയാം ഈ ട്യൂട്ടോറിയലിൽ നോഡുകളും എഡ്ജസ് ഉം അടങ്ങുന്ന ഒരു ഗ്രാഫ് ഫോർമാറ്റിൽ സോഷ്യൽ മീഡിയ ഡാറ്റയെ എങ്ങനെ പ്രതിനിധീകരിക്കാമെന്ന് നമ്മൾ പഠിക്കും സോഷ്യൽ നെറ്റ്വർക്ക് വിശകലനത്തിന്റെ അടിസ്ഥാനകാര്യങ്ങളും നമ്മൾ പഠിക്കും ഇത് എന്റെ ട്വിറ്റർ ഫോളോവേഴ്സ് നെറ്റ്വർക്ക് ഗ്രാഫിന്റെ ഒരു ഉദാഹരണമാണ് നോഡുകൾ എന്റെ അനുയായികളാണ് ഒരു നോഡ് മറ്റ് നോഡിനെ പിന്തുടരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു പരിമിതമായ നോഡുകളും എഡ്ജസ്കളും അടങ്ങുന്ന ഒരു ഡാറ്റ ഘടനയാണ് ഗ്രാഫ് ഉപയോക്താക്കൾ പേജുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിന്റെ സ്ഥാപനങ്ങളെ നോഡുകൾ പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് വിവിധ നോഡുകൾ തമ്മിലുള്ള ബന്ധത്തെ എഡ്ജുകൾ നിർവ്വചിക്കുന്നു ഉദാഹരണത്തിന് ഉപയോക്താവ് എ എന്നതിൽ നിന്ന് ഉപയോക്താവ് ബി എന്നതിലേക്ക് നയിക്കപ്പെടുന്ന എഡ്ജിന് എ ബി പിന്തുടരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ എ എന്ന ഉപയോക്താവിനും പേജിനും ഇടയിലുള്ള ഒരു എഡ്ജ് ഉപയോക്താവിന് ആ പ്രത്യേക പേജ് ഇഷ്ടമാണെന്ന് അർത്ഥമാക്കാം എന്നിരുന്നാലും അത്തരമൊരു നോഡ് എഡ്ജ് ഫോർമാറ്റ് ഒരു കമ്പ്യൂട്ടർ എങ്ങനെ മനസ്സിലാക്കും ഒരു നോഡ് എഡ്ജ് ഗ്രാഫിനെ പ്രതിനിധീകരിക്കാൻ വിവിധ മാർഗങ്ങളുണ്ട് തൊട്ടടുത്തുള്ള മാട്രിക്സ് ഗ്രാഫ് എം എൽഫോർമാറ്റ് സി എസ് വി ഫയലുകൾ എന്നിവയാണ് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ചില രീതികൾ അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗ്രാഫിലെ നോഡുകളുടെ എണ്ണത്തിന് തുല്യമായ വലിപ്പമുള്ള 2 ഡൈമൻഷണൽ സ്ക്വയർ മാട്രിക്സാണ് ഒരു അഡ്ജസൻസി മാട്രിക്സ് ഈ പ്രത്യേക ഉദാഹരണത്തിൽ ഗ്രാഫിന് 6 നോഡുകൾ ഉള്ളതിനാൽ അനുബന്ധ മാട്രിക്സിന്റെ വലിപ്പം 6 x 6 ആണ് ഇത് ഐ വരിയുടെയും ജെ നിരയുടെയും ഇന്റർസെക്റ്റ്ലാണ് നോഡുകൾ i നോഡ് j എന്നിവയ്ക്കിടയിൽ ഒരു എഡ്ജ് ഉണ്ട് അല്ലാത്തപക്ഷം അത് 0 ആണ് ഈ ഉദാഹരണത്തിൽ നോഡ് 1 മുതൽ നോഡ് 2 3 വരെ ഒരു എഡ്ജ് ഉണ്ട് അതിനാൽ ആദ്യ വരിയുടെയും രണ്ടാമത്തെ നിരയുടെയും ഇന്റർസെക്റ്റ് ലുള്ള സെല്ലിൽ 1 ലഭിക്കുന്നു അതുപോലെ ആദ്യ നിരയുടെയും മൂന്നാം നിരയുടെയും ഇന്റർസെക്റ്റ് ലുള്ള സെല്ലിനും 1 ലഭിക്കുന്നു എന്നിരുന്നാലും നോഡ് 1 നും നോഡ് 4 നും ഇടയിൽ ഒരു എഡ്ജും ഇല്ല അതിനാൽ ആദ്യ വരിയുടെയും നാലാമത്തെ നിരയുടെയും ഇന്റർസെക്റ്റ് ലുള്ള സെൽ 0 ആണ് തൊട്ടടുത്തുള്ള മാട്രിക്സും സമാനമായ രീതിയിൽ പൂരിപ്പിച്ചിരിക്കുന്നു ഏത് പ്രോഗ്രാമിംഗ് ഭാഷയിലും ഒരു അറേ ഡാറ്റ ഘടന ഉപയോഗിച്ച് നിർമ്മിക്കാൻ അഡ്ജസൻസി മാട്രിക്സ് വളരെ എളുപ്പമാണ് എന്നിരുന്നാലും ഇൻപുട്ട് ഗ്രാഫിന് ഉയർന്ന എണ്ണത്തിലുള്ള നോഡുകളും എഡ്ജസ്കളും കുറവാണെങ്കിൽ തത്ഫലമായുണ്ടാകുന്ന തൊട്ടടുത്തുള്ള മാട്രിക്സ് വളരെ വിരളവും സ്ഥല നഷ്ടം ഉണ്ടാക്കുന്നവയും ആണ് അതിനാൽ ഒരു ഗ്രാഫ് ML ഫോർമാറ്റ് പ്രതിനിധീകരിക്കാനുള്ള മറ്റൊരു വഴി നോക്കാം ഗ്രാഫുകൾക്കുള്ള ഒരു എക്സ് എം എൽ ഫയൽ ഫോർമാറ്റാണ് ഗ്രാഫ് എം എൽ ഇതിൽ ഒരു എക്സ് എം എൽ ഫയൽ അടങ്ങിയിരിക്കുന്നു അതിൽ ഒരു ഗ്രാഫ് ഘടകം അടങ്ങിയിരിക്കുന്നു അതിനുള്ളിൽ നോഡും എഡ്ജ് ഘടകങ്ങളും ക്രമപ്പെടുത്താത്ത ക്രമമാണ് ഓരോ നോഡ് മൂലകത്തിനും ഒരു പ്രത്യേക ഐഡി ആട്രിബ്യൂട്ടു ഓരോ എഡ്ജ് എലമെന്റിനും രണ്ട് നോഡുകൾക്കിടയിലുള്ള എഡ്ജിന്റെ അവസാന പോയിന്റുകൾ തിരിച്ചറിയുന്ന ഒരു സ്രോതസ്സും ഒരു ടാർഗെറ്റ് ആട്രിബ്യൂട്ടും ഉണ്ടായിരിക്കണം ഈ ഉദാഹരണത്തിൽ ഐഡികൾ എൻ 0 മുതൽ എൻ 10 വരെ നോഡ് ചെയ്യുന്ന 11 നോഡുകളുള്ള ഒരു ഗ്രാഫ് നമുക്കുണ്ട് ആദ്യത്തെ എഡ്ജ് ഘടകം നോഡ് എൻ 0 നും എൻ 2 നും ഇടയിൽ ഒരു എഡ്ജ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഗ്രാഫ് എം എൽ ഫോർമാറ്റിൽ നെറ്റ്വർക്ക് ഗ്രാഫ് പിന്തുടർന്ന് നിങ്ങളുടെ സ്വന്തം ട്വിറ്റർ എങ്ങനെ ശേഖരിക്കാമെന്ന് നമ്മൾ പഠിച്ചു ഗ്രാഫ് എം എൽ ഫോർമാറ്റിൽ ട്വിറ്റർ ഡാറ്റ ലഭിക്കുന്നതിന് നമ്മൾ കമാൻഡ് ലൈൻ ടൂളായ ട്വികോൾ ഉപയോഗിക്കും ട്വികോൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഫോളോവേഴ്സ് വിവരങ്ങൾ ശേഖരിക്കും അത് സുഹൃത്തുക്കളുടെയും സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുടെയും വിവരങ്ങൾ ശേഖരിക്കും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഈ പ്രത്യേക യു ആർ എൽ ലേക്ക് പോയി നമുക്ക് ട്വികോൾ ന്റെ കോഡ് ലഭ്യമാക്കാം ഒരു ഫോൾഡറിൽ കോഡ് ഡൌൺലോഡ് ചെയ്ത് അൺസിപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോഡ് ലഭിക്കുന്നതിന് ഈ ജിറ്റ് റിപ്പോ ക്ലോൺ ചെയ്യുക ഇപ്പോൾ ടെർമിനലിലേക്ക് പോയി നിങ്ങൾ കോഡ് ഡൌൺലോഡ് ചെയ്ത സ്ഥലത്തേക്ക് നാവിഗേറ്റ് ചെയ്യുക ഞാൻ ഇത് എൻ പി ടി ഇ എൽ ട്യൂട്ടോറിയൽ എന്ന ഫോൾഡർ നാമത്തിലേക്ക് ഡൌൺലോഡ് ചെയ്തു ഞാൻ അവിടെ പോകും ഇപ്പോൾ നമ്മൾ ഡാറ്റ ശേഖരിക്കാൻ തുടങ്ങും ആദ്യപടിയായി ഒരു ട്വിറ്റർ ആപ്പിന് അംഗീകാരം നൽകുന്നതിനായി ഞങ്ങൾ പ്രോഗ്രാം ആരംഭിക്കും എന്നിട്ടു നമ്മൾ പൈതൺ ട്വികോൾ ഇനിറ്റ് എന്ന കമാൻഡ് പ്രവർത്തിപ്പിക്കും തുടർന്ന് യൂസർ നെയിം നൽകും ഈ സാഹചര്യത്തിൽ ഡെമോ ആവശ്യത്തിനായി ഞാൻ ഒരു ഡമ്മി യൂസർ നെയിം ഉപയോഗിക്കുന്നു ആപ്പ്സ് ഡോട്ട് ട്വിറ്റർ ഡോട്ട് കോമിലേക്ക് apps com പോകാനും ഒരു ട്വിറ്റർ ആപ്ലിക്കേഷന്റെ കൺസ്യൂമർ കീ നൽകാനും പ്രോഗ്രാം നിങ്ങളെ പ്രേരിപ്പിക്കും നമുക്ക് ബ്രൌസറിലേക്ക് തിരികെ പോയി ആപ്പ്സ് ഡോട്ട് ട്വിറ്റർ ഡോട്ട് കോമിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ ഇതിനകം ഒരു ആപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ മുമ്പ് സൃഷ്ടിച്ച ആപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പുതിയത് ഉപയോഗിക്കാം കീകളിലേക്ക് പോയി ടോക്കൺ ആക്സസ് ചെയ്ത് കൺസ്യൂമർ കീ കണ്ടുപിടിക്കുക അപ്പോൾ അത് രഹസ്യം കോഡ് ചോദിക്കും അടുത്തതായി ഇത് ഒരു പിൻ നൽകാൻ ആവശ്യപ്പെടുന്ന ഒരു ലിങ്ക് സൃഷ്ടിക്കും തുടർന്ന് ആ യു ആർ എൽ ഒരു ബ്രൌസറിലേക്ക് പകർത്തി ഒട്ടിക്കുക നിങ്ങൾ ട്വിറ്റർ ആപ്ലിക്കേഷൻ അംഗീകാര പേജിലേക്ക് റീഡയറക്ട് ചെയ്യുകയും ചെയ്യും ഇതിനെ ടെർമിനലിൽ പകർത്തി ഒട്ടിക്കുക നിങ്ങളുടെ പ്രാരംഭ നടപടികൾ പൂർത്തിയാകും അടുത്തതായി ഇത് നിങ്ങളുടെ ട്വിറ്റർ അക്കൌണ്ടിനെ പിന്തുടരുന്നവരുടെ ഐഡി പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ നിങ്ങളുടെ ട്വിറ്റർ അക്കൌണ്ടിലെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുടെ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കും അത് ചെയ്യുന്നതിന് യൂസർ നെയിം കൊടുത്തതിനു ശേഷം പൈത്തൺ ട്വീക്കോൾ ലഭ്യമാക്കുന്നതിനുള്ള കമാൻഡ് ഫയർ ചെയ്യുക ഇത് നിങ്ങളുടെ അനുയായികളെ പിന്തുടരുന്നവരുടെ പട്ടിക നല്കാൻ തുടങ്ങും അടുത്തതായി പിന്തുടരുന്നവർക്കും അവരെ പിന്തുടരുന്നവർക്കുമിടയിൽ എഡ്ജ് കൾ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് ചെയ്യുന്നതിന് നമ്മൾ കമാൻഡ് പൈത്തൺ ട്വീക്കോൾ എഡ്ജ് ലിസ്റ്റ് റൺ ചെയ്യുകയും തുടർന്ന് യൂസർ നെയിം നൽകുകയും ചെയ്യും ഈ കമാൻഡ് നിങ്ങളെ പിന്തുടരുന്നവർക്കും അവരെ പിന്തുടരുന്നവർക്കുമിടയിൽ എഡ്ജ്കൾ സൃഷ്ടിക്കും ഗ്രാഫിൽ മൊഡ്യൂളിന്റെ പേര് ഇല്ലെന്ന് അറിയിപ്പ് ലഭിച്ചാൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഫോൾഡറിലെ ഫയലുകൾ ലിസ്റ്റ് ചെയ്യാൻ കഴിയും കൂടാതെ നിങ്ങളുടെ യൂസർ നെയിം ന്റെ പേരിലുള്ള ജി എം എൽ എക്സ്റ്റൻഷൻ ഉള്ള ഒരു ഫയൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളെ പിന്തുടരുന്നവരുടെയും അവരെ പിന്തുടരുന്നവരുടെയും വിവരങ്ങൾ അടങ്ങുന്ന ഫയലാണിത് ഒരു ട്വിറ്റർ ഡാറ്റയുടെ നെറ്റ്വർക്ക് ഗ്രാഫ് സൃഷ്ടിക്കാൻ ഞങ്ങൾ ജിഫി ഉപകരണം ഉപയോഗിക്കാം ഗ്രാഫ് വിഷ്വലൈസേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം സോഷ്യൽ നെറ്റ്വർക്ക് വിശകലനത്തിന്റെ അടിസ്ഥാനകാര്യങ്ങൾ നോക്കാം ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന എസ് എൻ എ മെട്രിക് ഇൻ ഡിഗ്രിയാണ് ഒരു ഡയറക്റ്റ് ഗ്രാഫിൽ ഇൻ ഡിഗ്രി ഒരു നോഡിലേക്ക് പ്രവേശിക്കുന്ന എഡ്ജ് കളുടെ എണ്ണത്തിന് തുല്യമാണ് ഈ ഉദാഹരണത്തിൽ നോഡ് 2 ന് നോഡ് 1 ൽ നിന്ന് എഡ്ജ്കൾ അതിലേക്ക് പ്രവേശിക്കുന്നു അതിൽ നിന്ന് ഒരു സ്വയം ലൂപ്പ് ഉണ്ടാകുന്നു അതിനാൽ അതിന്റെ ഡിഗ്രി രണ്ടാണ് ഔട്ട് ഡിഗ്രി ഈ ഉദാഹരണത്തിൽ ഒരു നോഡ് വിടുന്ന എഡ്ജ് കളുടെ എണ്ണത്തിന് തുല്യമാണ് എഡ്ജ്കൾ നോഡ് 2 മുതൽ 4 വരെയും നോഡ് 2 മുതൽ 5 വരെയും പോകുന്നു നോഡ് 2 ന് ഒരു സെൽഫ് ലൂപ്പും ഉണ്ട് അതിനാൽ നോഡ് 2 ന്റെ ഔട്ട് ഡിഗ്രി 3 ആണ് ഗ്രാഫിന്റെ ആകെ ഡിഗ്രി കണക്കാക്കുന്നത് ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും സംഗ്രഹിച്ചുകൊണ്ടാണ് ഉപയോഗപ്രദമായ മറ്റൊരു എസ്എൻഎ മെട്രിക്സ് എന്നത് കേന്ദ്രീകൃതമാണ് അത് ഏറ്റവും കേന്ദ്രമോ പ്രധാനപ്പെട്ടതോ ആയ നോഡ് ഏതാണെന്ന് കണ്ടെത്തുന്നു കേന്ദ്രീകരണം നിർവ്വചിക്കാൻ വിവിധ മാർഗങ്ങളുണ്ട് നമുക്ക് അവയെ ഓരോന്നായി നോക്കാം ഇൻ ഡിഗ്രി കേന്ദ്രീകരണം ഏറ്റവും ഉയർന്ന ഡിഗ്രി ഉള്ള നോഡ് കണ്ടെത്തുന്നു ഇതിന് ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന നോഡ് അല്ലെങ്കിൽ ട്വിറ്റർ ഫോളോവർ ഗ്രാഫിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഉപയോക്താവിനെ ഇത് സൂചിപ്പിക്കുന്നു ഏറ്റവും ഉയർന്ന ഔട്ട് ഡിഗ്രി നോഡ് കണ്ടെത്തുന്നതിന് ഔട്ട്ഡിഗ്രി കേന്ദ്രീകരണം സഹായിക്കുന്നു കേന്ദ്രത്വം അളക്കുന്നതിനുള്ള മറ്റ് മാർഗ്ഗങ്ങൾ ബിറ്റ്വീനസ് ഉം ക്ലോസ്നെസ്സ് ഉം ആണ് ബിറ്റ്വീനസ് സെൻട്രലിറ്റി എന്നത് ആ നോഡിലൂടെ കടന്നുപോകുന്ന മറ്റെല്ലാ ശീർഷകങ്ങളിൽ നിന്നും ചെറിയ പാതകളുടെ എണ്ണത്തിന് തുല്യമാണ് മറ്റെല്ലാ നോഡുകളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരമുള്ള നോഡ് കണ്ടെത്താൻ ക്ലോസ്നസ് സെൻട്രാലിറ്റി സഹായിക്കുന്നു നമുക്ക് ഒരു ഗ്രാഫിൽ കമ്മ്യൂണിറ്റി നോക്കാം സമാനമോ ശക്തമായി ബന്ധിപ്പിക്കുന്നതോ ആയ നോഡുകളുടെ ഒരു കൂട്ടമാണ് ഒരു കമ്മ്യൂണിറ്റി ഒരു സമൂഹത്തിന്റെ ശക്തിയെ നിർവചിക്കാനുള്ള അളവ് മോഡുലാരിറ്റി യാണ് തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എഡ്ജ് കളുടെ അംശത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ ഗ്രാഫ് വിഷ്വലൈസേഷനായി നമ്മൾ ജിഫി ഉപയോഗിക്കും ഇപ്പോൾ ജിഫി ഡോട്ട് ഓ ആർ ജി ലേക്ക് പോകുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനായി ജിഫി ഇൻസ്റ്റാളർ ഡൌൺലോഡ് ചെയ്യുക ഞാൻ ഇതിനകം എന്റെ മെഷീനിൽ ജിഫി ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു ജിഫി ആരംഭിച്ച് നിങ്ങൾ മുമ്പ് സൃഷ്ടിച്ച ഗ്രാഫ് എം എൽ ഫയൽ തുറക്കുക നോഡുകളുടെ എണ്ണവും എഡ്ജ് കളുടെ എണ്ണവും ആയ ഗ്രാഫിന്റെ ചില സ്ഥിതിവിവരക്കണക്കുകൾ ഇത് കാണിക്കും ശരി ക്ലിക്കു ചെയ്യുക താമസിയാതെ നിങ്ങളുടെ ഗ്രാഫ് ലോഡ് ചെയ്യും നിങ്ങൾ ഒന്നും കാണുന്നില്ലെങ്കിൽ അവലോകനത്തിൽ ക്ലിക്കു ചെയ്യുക ഒരു ഗ്രാഫ് ആരംഭിക്കും നിങ്ങളുടെ ഗ്രാഫ് വളരെ സാന്ദ്രമാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിന്റെ ലേഔട്ട് മാറ്റാവുന്നതാണ് ഇടത് പാനലിൽ നിന്ന് ഡ്രോപ്പ് ഡൌൺ മെനുവിൽ ക്ലിക്ക് ചെയ്ത് വ്യത്യസ്ത ലേഔട്ട് തിരഞ്ഞെടുക്കുക നമുക്ക് റെയിൻ ഗോൾഡ് അൽഗോരിതം തിരഞ്ഞെടുത്ത് പ്രവർത്തിപ്പിക്കാം കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് അത് നിർത്താനാകും ഇപ്പോൾ ഈ ഗ്രാഫ് മനോഹരമാക്കാൻ നമുക്ക് ശ്രമിക്കാം അത് ചെയ്യുന്നതിന് നിങ്ങളുടെ വലതുവശത്ത് നിങ്ങൾക്ക് ധാരാളം നെറ്റ്വർക്ക് സ്ഥിതിവിവരക്കണക്കുകൾ കാണാൻ കഴിയും ഉദാഹരണത്തിന് ശരാശരി ഡിഗ്രി ആവറേജ് വെയ്റ്റേഡ് ഡിഗ്രി നെറ്റ്വർക്ക് വ്യാസം മുതലായവ റിപ്പോർട്ടുകൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് റൺ ക്ലിക്ക് ചെയ്യാം ഉദാഹരണത്തിന് ഇത് എന്റെ ട്വിറ്റർ ഫോളോവീ ഗ്രാഫിന്റെ ഡിഗ്രി വിതരണമാണ് നിങ്ങൾക്ക് സമാനമായ സ്ഥിതിവിവരക്കണക്കുകൾ സൃഷ്ടിക്കാൻ കഴിയും നമ്മുടെ ട്വിറ്റർ ഫോളോയി ഗ്രാഫിലെ കമ്മ്യൂണിറ്റികളുടെ എണ്ണം എന്താണെന്ന് മനസിലാക്കാൻ നമ്മൾ മോഡുലാർറ്റി പ്രവർത്തിപ്പിക്കും അടുത്തതായി നമുക്ക് ഈ ഗ്രാഫ് ഇഷ്ടാനുസൃതമാക്കാം നോഡുകൾ നമ്മുടെ അനുയായികളാണ് എന്നാൽ അവരുടെ ലേബലുകൾ നമുക്ക് കാണാൻ കഴിയില്ല അതിനാൽ ലേബലുകൾ സൃഷ്ടിക്കാൻ റ്റി ക്ലിക്ക് ചെയ്യുക നോഡുകളുടെയും എഡ്ജ്കളുടെയും നിറം നമുക്ക് ഇഷ്ടാനുസൃതമാക്കാനും കഴിയും ഇടത് പാനലിൽ വർണ്ണ പാലറ്റ് തിരഞ്ഞെടുക്കുക നോഡുകൾ തിരഞ്ഞെടുക്കുക ആട്രിബ്യൂട്ടുകളിൽ ക്ലിക്കുചെയ്യുക തുടർന്ന് മോഡുലാരിറ്റി ക്ലാസ് തിരഞ്ഞെടുക്കുക അപ്ലൈ ക്ലിക്കുചെയ്യുക നോഡുകളുടെ വലുപ്പം പോലും നമുക്ക് ഇഷ്ടാനുസൃതമാക്കാം വലിപ്പം പാലറ്റ് നോഡുകളിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആട്രിബ്യൂട്ടുകളിൽ ഒരു ആട്രിബ്യൂട്ട് തിരഞ്ഞെടുക്കുക നമുക്ക് ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം അതുവഴി ഒരു ഗ്രാഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോഡുകൾ ഏതെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും അപ്ലൈ ക്ലിക്കുചെയ്യുക ഇത് നോഡുകളുടെ നിറവും വലുപ്പവും മാറ്റും നിങ്ങളുടെ ഗ്രാഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോഡുകളും അവയിൽ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റികൾക്കനുസൃതമായി വ്യത്യസ്ത നിറങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് സൂം ഇൻ ചെയ്ത് കാണാനാകും എഡ്ജ്കളുടെ രൂപം മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ഗ്രാഫ് കൂടുതൽ ഇഷ്ടാനുസൃതമാക്കാം നമുക്ക് പ്രിവ്യൂവിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ ഒരു വിൻഡോ ടാബും കാണുന്നില്ലെങ്കിൽ പ്രിവ്യൂ ക്രമീകരണങ്ങളിൽ ക്ലിക്കുചെയ്യുക വീണ്ടും വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പ്രീസെറ്റുകളിൽ നിന്ന് ഡിഫോൾട്ട് കർവ് തിരഞ്ഞെടുത്ത് റിഫ്രഷ് ക്ലിക്ക് ചെയ്യുക ഇത് എഡ്ജ്കൾ നേരായതിനുപകരം വളഞ്ഞതാക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫ് എസ് വി ജി പി ഡി ഫ് അല്ലെങ്കിൽ പി എൻ ജി ഫോർമാറ്റായി സേവ് ചെയ്യാൻ കഴിയും അതിനായി ഇടത് പാനലിൽ നിന്ന് എക്സ്പോർട്ടിൽ ക്ലിക്കുചെയ്ത് എക്സ്പോർട്ടു ചെയ്യുക ഡാറ്റാ ലബോറട്ടറിയിൽ പോയി ഈ ഗ്രാഫ് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റ നിങ്ങൾക്ക് ബ്രൌസ് ചെയ്യാനും കഴിയും ഡാറ്റ ലബോറട്ടറി ടാബിൽ ക്ലിക്കുചെയ്യുക ഇത് നോഡുകളുടെയും എഡ്ജ് കളുടെയും അവയ്ക്കിടയിലുള്ള ബന്ധങ്ങളുടെയും പട്ടിക കാണിക്കും രണ്ട് ടാബും നോഡുകളും എഡ്ജ്കളും ഉണ്ടാകും നോഡുകൾ ടാബ് നോഡുകളെ കുറിച്ചുള്ള വിവരങ്ങളും എഡ്ജ്കൾ നമ്മൾ ജി എം എൽ gml ഫയലിൽ സംഭരിച്ചിരിക്കുന്നതിനാൽ ഉറവിട ലക്ഷ്യ വിവരങ്ങൾ പട്ടികപ്പെടുത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡാറ്റയിൽ നിന്ന് ഒരു നെറ്റ്വർക്ക് ഗ്രാഫ് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നമുക്കറിയാം